റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷനെ സൂചിപ്പിക്കുന്ന ആർ ഡി യെക്കുറിച്ചുള്ളതാണ് ഈ പ്രത്യേക പ്രഭാഷണം അതിനാൽ ആർ ഡി യുടെ ചില ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടുന്ന ചില അടിസ്ഥാനകാര്യങ്ങളിലേക്ക് കടക്കാം സ്ലൈഡ് സമയം 0025 30 കാണുക ആർ ഡിയുടെ ചില ആപ്ലിക്കേഷനുകൾ അടിസ്ഥാന പ്രോട്ടോക്കോൾ വർക്കിംഗ് പ്രോട്ടോക്കോളും അതിന്റെ പ്രവർത്തനവും മനസിലാക്കാം എന്താണ് വിഷമകരമായ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ആർ ഡി ലെ കഠിനമായ ആവേശകരമായ പ്രശ്നങ്ങൾ ഡി ലെ കഠിനവും ആവേശകരവുമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഗവേഷകരെ ആവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ലോക്കലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് ലോക്കലൈസേഷന് ഞങ്ങൾക്ക് കൂടുതൽ സമയമില്ല ആർ യുമായി ബന്ധപ്പെട്ട് ലോക്കലൈസേഷൻ എന്നതിനെക്കുറിച്ച് ഒരു അവലോകനത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസിലാക്കാൻ കഴിയുക തുടർന്ന് ഞങ്ങൾ കുറച്ച് ഡെമോകൾ ചെയ്യും കാരണം ആത്യന്തികമായി നിങ്ങൾ ഒരു ആർ ഡി ടാഗ് ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ടി സിസ്റ്റം രൂപകൽപ്പന ചെയ്യാൻ ആരംഭിക്കണം നിങ്ങളുടെ ആപ്ലിക്കേഷനായുള്ള പരിഹാരങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് വ്യത്യസ്ത ഡിസൈൻ ചോയ്സുകളിലൂടെയും കടന്നുപോകേണ്ടിവരും അതിന് കീഴിലുള്ള ടാഗ് ഏത് തരം റീഡർ ഉപയോഗിക്കണം റീഡറിന്റെ പോളറയ്സേഷൻ എന്തായിരിക്കണം ടാഗ് സെൻസിറ്റിവിററി എന്തായിരിക്കണം അതിന്റെ റേഡിയേഷൻ പാറ്റേൺ എന്തായിരിക്കണം എന്നൊക്കെ അറിയണം നിങ്ങളുടെ ഐ ടി ആപ്ലിക്കേഷനായി വളരെ മികച്ച പരിഹാര മാർഗ്ഗത്തിൽ നിർമ്മിക്കുന്നതിന് നിരവധി അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ട് ടാഗ് A ടാഗ് B എന്നിവയ്ക്കിടയിൽ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും വ്യത്യസ്ത തരം ചോയിസുകൾ എന്തൊക്കെയാണ് വ്യത്യസ്ത തരം റീഡർ ഏതാണ് ഈ റീഡറിൽ നിന്ന് ഏത് തരത്തിലുള്ള ഹാൻഡിലുകൾ ലഭ്യമാണ് നിങ്ങളുടെ അപ്ലിക്കേഷനുകൾക്കായി ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതെങ്ങനെ അതിനാൽ മുഴുവൻ പ്രശ്നങ്ങളും കാണാനും മനസിലാക്കാനും നിങ്ങൾ ഡെമോ ചെയ്യണം കൂടാതെ ആർ ഡി സിസ്റ്റങ്ങൾ ഇതിലേക്ക് എങ്ങനെ ക്രമീകരിക്കാമെന്ന് കാണുക ഐ ഒ ടി ആപ്ലിക്കേഷനായുള്ള ഞങ്ങളുടെ ഡിസൈനിലേക്ക് അവയെ സംയോജിപ്പിക്കുക പ്രധാനമായും നിങ്ങൾ ആർ ഡി യെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു പുതിയ സാങ്കേതികവിദ്യയല്ല ഡി ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലോ ഫ്രീക്വൻസി ഹൈഫ്രീക്വൻസി അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്നിവയെ ഉൾപ്പെടുത്താൻ കഴിയും ലോ ഫ്രീക്വൻസി ആർ ഡി യിൽ 125 മുതൽ 134 KHz വരെ പ്രവർത്തിക്കുന്ന ടാഗുകൾ ലഭ്യമാണ് ഞങ്ങൾ അവ മുമ്പത്തെ ചില ആപ്ലിക്കേഷനുകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു പ്രധാനമായും അവയെ മൃഗങ്ങളെ ട്രാക്കുചെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നു 10 സെന്റിമീറ്ററോളം ലഭിക്കുന്നതിന് നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസി ആർ ഐ ഡി സിസ്റ്റങ്ങൾ ഉപയോഗിക്കണം RFID സിസ്റ്റം എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ ഒരു റീടറും ടാഗും ഉൾപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരും പക്ഷേ അടിസ്ഥാനപരമായി ഒരു റീഡറും ഡാറ്റയും അടങ്ങുന്ന ഒരു സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസിലാക്കണം എന്തുകൊണ്ട് ഒരു റീഡർ മാത്രം ഉപയേഗിക്കുന്നു അത് ഒന്നിലധികം റീഡർ ആയിക്കൂടേ ഇത് 1 2 3 അല്ലെങ്കിൽ 4 റീഡറിൽ നിന്നും 100 അല്ലെങ്കിൽ 1000 ടാഗുകളോ ആകാം ഞങ്ങൾ അവയെ ആർ ഐ ഡി സിസ്റ്റം എന്ന് വിളിക്കുന്നു അതിനാൽ ലോ ഫ്രീക്വൻസി എന്ന് ഞാൻ പറയുമ്പോൾ അത് റീഡർ ഫ്രീക്വൻസിയെക്കുറിച്ചല്ല മറിച്ച് സിസ്റ്റം ഫ്രീക്വൻസിയെക്കുറിച്ചാണ് ഹൈ ഫ്രീക്വൻസി മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കഷൻ അഥവാ എൻ സി NFC എന്നു പറയുന്നു അടിസ്ഥാനപരമായി അത് 13 56 MHz ആയി സജ്ജീകരിച്ചിരിക്കുന്നു ഇത് നിങ്ങൾക്ക് വളരെയധികം റേഞ്ച് നൽകില്ല കൂടാതെ അടുത്തിടെ ഞാൻ പത്രത്തിൽ കണ്ടത് പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് സാധാരണയായി നിങ്ങൾ സ്മാർട്ട് കാർഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഉപയോഗിച്ചു വരുന്നു അതിനാൽ പ്രധാനമായും ഇവിടെ NFC സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ആർഎഫ്ഐഡിയുടെയും എൻഎഫ്സിയുടെയും പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നു ടാഗുകൾ ഡoപ് ചെയ്യുക എന്നത് ഇവിടെ ഒരു പ്രധാന കാര്യമാണ് വാസ്തവത്തിൽ ഡംപ് ടാഗുകൾ എന്ന് ഇനി പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഡംപ് ടാഗിൽ ബാറ്ററി ഇല്ലെങ്കിലും അവയുടെ ഐഡിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക അതിനെ വളരെ ബുദ്ധിമാനാക്കാം സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് കാണാo NFC തീർച്ചയായും RFID യുടെ ഒരു ഉപവിഭാഗമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് സ്മാർട്ട് കാർഡുകളിലും ടിക്കറ്റിംഗ് ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ UHF ഉപയോഗിക്കണം UHF 433 MHz ടാഗുകളാണ് കൂടാതെ 856 MHz മുതൽ 960 MHz വരെ കണ്ടു വരുന്നു യുഎച്ച്എഫിലെ ഈ ഫ്രീക്വൻസി റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഓരോ രാജ്യത്തിനും അതിന്റെ പരിധി ഉണ്ടായിരിക്കും ഇത് അടിസ്ഥാനപരമായി ആപ്ലിക്കേഷനുകളുടെ പൂർണ്ണ റയിഞ്ചാണ് ഇവിടെ പലരും ഒരു വലിയ റെയിഞ്ചിനെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് നിരവധി മീറ്ററുകളെക്കുറിച്ച് സംസാരിക്കാം ആളുകൾ നൂറ് പ്ലസ് മീറ്ററുകളെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും ഞങ്ങൾ അത്തരത്തിലെ ആപ്ലിക്കേഷനുകൾ കണ്ടിട്ടില്ല 12 മുതൽ 15 മീറ്റർ വരെ ഉള്ള ആപ്ലിക്കേഷനുകൾ 850 മുതൽ 856 മുതൽ 960 മെഗാ ഹെർട്സ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു ഞാൻ 433 മെഗാഹെർട്സ് യുഎച്ച്എഫ് ടാഗ് കണ്ടിട്ടില്ല പക്ഷേ അതും സാധ്യമാണ് ഉയർന്ന ഫ്രീക്വൻസി ടാഗുകളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടില്ല എൻഎഫ്സിക്ക് സാധാരണയായി 30 സെന്റിമീറ്റർ നിർവചിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷേ ആപ്ലിക്കേഷനുകൾ 1 സെന്റിമീറ്ററിൽ കൂടുതൽ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അതിനാൽ ഇത് യഥാർത്ഥത്തിൽ സുരക്ഷയെ കൊണ്ടുവരുന്നു കാരണം അതിന്റെ വയർലെസ് ടെതർ ചെയ്തിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരു സെന്റിമീറ്റർ ലഭിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ധാരാളം സുരക്ഷ നൽകുന്നു അതിനാൽ എൻഎഫ്സി ജനപ്രിയ സ്റ്റാൻഡേർഡ് ആയ 30 സെന്റിമീറ്റർ കണ്ടെത്തി പക്ഷേ അത്തരം റേഞ്ചറുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് RFID സിസ്റ്റങ്ങളിൽ ഏകദേശം 1 സെന്റിമീറ്റർ ആവൃത്തിയിൽ ലഭ്യമാണ് ഇനി അടുത്ത പേജിലേക്ക് പോകാം പ്രധാനമായും നിങ്ങൾ RFID സിസ്റ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടാഗുകളെയും റീഡറുകളെയും കുറിച്ചും സംസാരിക്കും ടാഗുകൾ ബാറ്ററിലസ്സ് അല്ലെങ്കിൽ ബാറ്ററി അസിസ്റ്റൻറ് പാസീവ് ടാഗുകൾ ആകാം ഞങ്ങൾ അവരുടെ ചില ചിത്രങ്ങൾ കാണിക്കാം തുടർന്ന് നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലാകും കാരണം എന്റെ ലാപ്ടോപ്പിൽ RFID ൽ പ്രവർത്തിക്കുന്ന സുഹായിയും തേജസ്വിനിയും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അവർ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും അത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകും എന്തുകൊണ്ടാണ് ബാറ്ററി അസിസ്റ്റൻഡ് ഇപ്പോഴും പാസീവ് എന്ന് വിളിക്കുന്നത് കാരണം റീഡർ ഇല്ലാതെ അവർക്ക് ഡാറ്റ നൽകാൻ കഴിയില്ല അതിനാൽ മാസ്റ്റർ റീഡറായി തുടരുന്നു അത് പ്രധാനമാണ് അവർക്ക് വിവരങ്ങൾ റീഡറിന് തിരികെ നൽകാൻ മാത്രമേ കഴിയൂ നിങ്ങൾക്ക് ബാറ്ററി അസിസ്റ്റൻഡ് ടാഗുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മെച്ചപ്പെടുകയുള്ളൂ യുഎച്ച്എഫ് വാഗ്ദാനം ചെയ്യുന്ന ഈ നൂറ് പ്ലസ് മീറ്ററുകൾ ഈ ബാറ്ററി അസിസ്റ്റ ട് പാസീവ് ടാഗുകൾ ഒരു സാധ്യതയാണ് അതിനാൽ നിങ്ങൾ അത് ഓർത്തിരിക്കണം ഇപ്പോൾ പലതും അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ശരിക്കും മുന്നോട്ട് പോയി RFID സാങ്കേതികവിദ്യ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവയെ ടാഗുകൾ എന്ന് വിളിക്കരുത് ടാഗിന് ഒരു സാങ്കേതിക നാമമുണ്ട് ട്രാൻസ്പോണ്ടർ എന്നാണ് ഇതിന്റെ സാങ്കേതിക നാമം റീഡറിനെ ഇൻറ്റെറോഗേറ്റർ എന്നും വിളിക്കുന്നു ടാഗുകളെ ട്രാൻസ്പോണ്ടർ എന്നും റീഡറുകളെ ഇൻറ്റെറോഗേറ്റർ എന്നും വിളിക്കേണ്ടതാണ് ഇൻറ്റെറോഗേറ്റർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നെ ഇൻറ്റെറോഗേററ് ചെയ്യുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നുവെന്നും നിങ്ങൾ ആ ചോദ്യത്തിന് ശരിയായി മറുപടി നൽകുന്നുവെന്നും അർത്ഥമാക്കുന്നു ഇതാണ് RFID യുടെ സാരം നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റുചെയ്യാനോ ഡാറ്റ കൈമാറാനോ കഴിയില്ല നിങ്ങൾ മറുപടി നൽകുകയും ഇല്ല ആരാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ഇൻറ്ററോഗേറ്റർക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയും റീഡറാണ് ഇൻറ്ററോഗേറ്റർ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ചില നിയമങ്ങൾ ചോദ്യം ചെയ്യുന്നയാൾ നിങ്ങളോട് പറയും ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ പാടുള്ളു എന്ന് അവൻ നിങ്ങളോട് പറയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധാരാളം ടാഗുകൾ കിടക്കുന്നുണ്ട് കൂടാതെ സംസാരിക്കാനുള്ള ഒരു വ്യക്തിയായി ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ എന്നോട് പ്രതികരിക്കും എന്നും അതിനർത്ഥമാകുന്നു ടാഗ് ഏകീകരിക്കാനും ചോദ്യം ചെയ്യപ്പെടുന്ന തന്നിരിക്കുന്ന ടാഗിൽ നിന്ന് മറുപടി നൽകാനും കഴിയും നിങ്ങൾ ഈ അടിസ്ഥാന നിയമം മനസിലാക്കുകയാണെങ്കിൽ RFID പ്രോട്ടോക്കോൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് പലതും മനസ്സിലാകും അതിനാൽ അത് മനസ്സിൽ വയ്ക്കുക റേഞ്ച് ഒരു ചർച്ചാവിഷയമായ വിഷയമാണെന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇതിനകം പരാമർശിച്ചിരുന്നു എന്നാൽ നിങ്ങൾക്ക് ബാറ്ററി അസിസ്റ്റഡ് ടാഗുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എത്തിച്ചേരാം അതിനാൽ സ്റ്റാൻഡേർഡ് എന്ന് ആളുകൾവിളിക്കപ്പെടുന്ന 100 മീറ്റർ ടാഗിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ രൂപ 5 മുതൽ 20 രൂപ വരെ ചിലവ് വരും ഈ ടാകുകൾക്ക് നിങ്ങൾക്ക് വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്കായി വ്യാവസായിക ടാഗുകൾ ഉപയോഗിക്കാം ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകൾക്കും വ്യോമയാന ആപ്ലിക്കേഷനുകൾക്കും ടാഗുകൾ ലഭ്യമാണ് അതിനാൽ നിങ്ങൾ സുരക്ഷാ വസ്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു വിമാനത്തിന്റെ ഇരിപ്പിടത്തിന് താഴെയുള്ള എല്ലാ സുരക്ഷാ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടാഗ് ഉണ്ട് വാസ്തവത്തിൽ നിങ്ങൾ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ ഒരു വിൻഡ്ഷീൽഡ് ഉണ്ട് നിലവിൽ വിൻഡ്ഷീൽഡ് ടാഗുകൾ വളരെ പ്രചാരത്തിലുണ്ട് എല്ലാ പുതിയ കാറുകളിലും ഈ വിൻഡ്ഷീൽഡ് ടാഗുകൾ ഉണ്ട് അവ പ്രധാനമായും ഒരു വാഹനത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്ററുകളും യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഗമായാണ് ടാഗിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യാവസായികമായി വ്യത്യസ്ത തരം ടാഗുകൾ ഉണ്ടാകാം ഇവയെ വെറ്റ് ഇൻലേയ്സ് ടാഗുകൾ എന്ന് അറിയപ്പെടുന്നു ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചുതരാം മെറ്റാലിക് ഉപരിതലത്തിനുള്ളിൽ ഉൾപ്പെടുത്താവുന്ന മെറ്റാലിക് ടാഗുകളായ വ്യാവസായിക ടാഗുകളുടെ സാമ്പിളുകൾ നിങ്ങൾക്ക് കാണിച്ചുതരാം എല്ലാ പുതിയ കാറുകളിലും വിൻസ് ഷീൽഡ് RFID ടാഗുകളാണ് ഉപയോഗിക്കുന്നത് ടാഗിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായി വിൻഡ്ഷീൽഡ് പ്രത്യേക ടാഗുകൾ വിൻഡ്ഷീൽഡിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു അത് ഗ്ലാസ് ഉപരിതലത്തിലുടനീളം എളുപ്പത്തിൽ റീഡ് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഏവി യേഷൻ ടാഗുകളുള്ള ഓട്ടോമോട്ടീവ് ടാഗ് ഉണ്ടായിരിക്കാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സാധ്യതകളെല്ലാം നിലവിലുണ്ട് അതിനാൽ ചോയ്സ് ഒരു പ്രശ്നമാണ് IoT യുടെ ചോയ്സ് ഡിസൈൻ എന്നാൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തിരിച്ചറിയുക അതിനാൽ ഇതിനകം നിങ്ങൾക്ക് വ്യത്യസ്ത തരം ടാഗുകൾ ഉണ്ട് അവയിൽ നിന്ന് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നത് കാണാം നിങ്ങൾ ഒരു ടാഗ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ടാഗുചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉപരിതലവും റീഡർ റേഞ്ചും എന്താണെന്ന് നോക്കണം അതിനാൽ ടാഗിന്റെ ശരിയായ ഉപരിതല ചോയ്സ് എന്ന് ഞാൻ പറയും ഏതെങ്കിലും പരിസ്ഥിതി സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടെ കണക്കിലെടുക്കണം അവിടെ അമിതമായ ചൂടോ തണുപ്പോ ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കണം വൈബ്രേഷൻ എനർജി ഹാർവേസ്റിംഗ് ചർച്ചയ്ക്കിടെ നിങ്ങൾ ഹാർവെസ്റ്റർ മൌണ്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പരാമർശിച്ചിരുന്നു ഹാർവെസ്റ്റർ അറ്റാച്ചുമെന്റ് രീതിയും നിർണായകമാണ് നിങ്ങൾ ഒരു പശ ഉപയോഗിക്കാൻ പോകുകയാണോ അതോ നിങ്ങൾ ഒരു എപ്പോക്സി ഉപയോഗിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ റിവറ്റുകളും സ്ക്രൂകളും മറ്റും ഉപയോഗിക്കാൻ പോവുകയാണോ അതിനാൽ വീണ്ടും മൌണ്ടിംഗ് നിർണായകമായിത്തീരുന്നു ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത ടാഗ് അർത്ഥമാക്കുന്നത് നിങ്ങൾ എവിടെ എങ്ങനെ സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ ഇത് മറ്റൊരു പ്രധാന പാരാമീറ്ററായി ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ചെലവ് ഇവിടെ ഒരു നിർണായകമായിത്തീരുന്നു ഇതൊക്കെയാണ് ടാഗുകളെകുറിച്ച് പറയാനുള്ളത് RFID ആന്റിനകളുടെ പ്രധാന ആവശ്യകതകൾ എങ്ങനെയെന്ന് നോക്കാം അതിനാൽ അടിസ്ഥാനപരമായി ഇവ പവർ റേഡിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ് നിങ്ങൾക്ക് പ്ലാനാർ ആന്റിനകളുണ്ടാകാം ഞാൻ ഒരു ഇൻപുട്ട് ആയി പവർ ഉപയോഗിക്കുകയും അവ ആവശ്യമുള്ള ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡുകൾ ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വലുപ്പത്തിൽ വ്യത്യാസമുള്ള ആന്റിനകൾ ഉണ്ടാകാം ആന്റിന വ്യത്യസ്ത വലുപ്പത്തിലുള്ളവയാണ് ഞാൻ നിങ്ങളോട് പ്ലാനാർ ആന്റിനയെ കുറിച്ച് സംസാരിച്ചു അത് ഒരു തരം ആന്റിനയാണ് ആന്റിന ഗെയിൻ എൻക്ലോസറിനെക്കുറിച്ചും ആന്റിനയുടെ Ip റേറ്റിംഗിനെക്കുറിച്ചും നിങ്ങൾക്ക് സംസാരിക്കാം കാരണം ഇത് ഔട്ട് ഡോർ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ Ip റേറ്റിഗും പോളറൈസേഷനും നിർണായക ഘടകങ്ങളായി കണക്കാക്കേണ്ടതാണ് നിങ്ങൾ RFID ആന്റിന തിരഞ്ഞെടുക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഈ പരാമീറ്ററുകളെല്ലാം ചിത്രത്തിലേക്ക് വരാൻ തുടങ്ങും ടാഗിനായുള്ള RFID ആന്റിനയ്ക്കും ഈ പാരാമീറ്ററുകളിൽ ചിലത് ഉണ്ട് എന്നാൽ നിങ്ങൾ RFID ആന്റിനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പ്ലനാർ പ്രതലത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും അത് പ്രധാനമായും റീഡർ അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്ററുടെ ഭാഗമാണ് ഈ പ്ലാനാർ ആൻറിനകളുടെ ഗെയിനും പോളറൈസേഷനും ഒരു പ്രധാന കാര്യമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു പോളറൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസിലാക്കേണ്ടത് ഗെയിനിനെ കുറിച്ചാണ് ഒരു ആന്റിന പോലുള്ള ഒരു പാസിവ് ഘടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് ഗെയിൻ എന്ന് അറിയണം വോൾട്ടേജ് ഗെയിൻ എന്നത് ഒരു ഒപ്പാമ്പ് ൽ അല്ലെങ്കിൽ ഇലക്ടോണിക് സെൻസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു ആന്റിനയുടെ ഗെയിൻ എന്താണെന്ന് നമുക്ക് കാണാം ഒരു ഐസോട്രോപിക് ആന്റിന ഉണ്ടെന്ന് കരുതുക ഐസോട്രോപിക് ആന്റിന എന്ന് പറയുമ്പോൾ ആന്റിന റേഡിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നെറ്റിക് ഊർജ്ജം പൂർണ്ണമായും വൃത്താകൃതിയിലാണ് അത് ഓമ്നി ദിശാസൂചനയാണ് ഇത് ഒരു പാരാമീറ്ററാണ് നിങ്ങൾക്ക് ഗെയിൻ രണ്ട് ഉള്ള ഒരു ആന്റിന ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് X ആണ് ഇത് മറ്റൊരു X ഗെയിൻ 2 കിട്ടണമെങ്കിൽ 2 x X ആകണം അതായത് ഒരു ഒമ്നി ഡയറക്ഷൻ ആൻറിന വച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടി ഗെയിൻ ലഭിക്കണം നമുക്ക് vi Vout വേണം ഗെയിൻ 2 കിട്ടണമെങ്കിൽ Vi എത്ര വേണം ആന്റിന പദങ്ങളിൽ തുല്യമായത് ഓമ്നി ദിശാസൂചന ആന്റിനയുടെ ഗെയിൻ ആണ് അതിനാൽ ഓമ്നി ദിശാസൂചന ആന്റിനയുമായി താരതമ്യം ചെയ്യുമ്പോൾ അധിക ഗെയിനെന്താണ് ഓമ്നി ദിശാസൂചന ആന്റിനയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയ അധിക റെയിഞ്ച് എത്രയാണ് 2 dB യുടെ ഗെയിൻ വാസ്തവത്തിൽ dB യിൽ എന്തും കാണിക്കാൻ കഴിയും ഗെയിൻ സാധാരണയായി dBയിൽ പ്രകടിപ്പിക്കും റെയിഞ്ച് ഇൻ ഡാറ്റയിലെ മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഗെയിനിന്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചുതന്നു അടിസ്ഥാനപരമായി ഉയർന്ന ഗെയിനുണ്ടെങ്കിൽ റേഞ്ച് മെച്ചപ്പെടുത്താവുന്നതാണ് ടാഗിന് ടാഗിന്റെ പകുതി ദൂരം വരാം വീണ്ടും ഈ 100 പ്ലസ് മീറ്ററുകൾ നിറവേറ്റാൻ കഴിയും ഇതിന്റെ അർത്ഥമെന്താണ് നിങ്ങൾ ഉയർന്ന ഗെയിനുള്ള ആന്റിനയും നിങ്ങൾ ബാറ്ററി അസിസ്റ്റഡ് പാസീവ് ടാഗും ഇടുക അതിനാൽ നിങ്ങൾ പോകുന്ന പകുതി ദൂരത്തേക്കാണ് അത് വരുന്നത് ഇൻറ്ററോഗേറ്റർ ടാഗ് പകുതി ദൂരത്തേക്ക് പോകുന്നു അതിനാൽ 100 പ്ലസ് സാധ്യമായേക്കാം അതിനാൽ ഒരു നല്ല റെയിഞ്ച് കിട്ടുവാൻ ഒരു ഉയർന്ന ഗെയിനുള്ള ആന്റിനയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് റീഡർ ഭാഗത്ത് നിന്ന് ബാറ്ററി അസിസ്റ്റഡ് പാസീവ് ടാഗിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ ബാറ്ററി അസിസ്റ്റ്ഡ് പാസീവ് ടാഗുമായി ഉയർന്ന ഗെയിനുള്ള ആന്റിന സംയോജിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല റെയിഞ്ചു നൽകും വ്യത്യസ്ത ഐഒടി ആപ്ലിക്കേഷനുകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കും എന്ന ചിന്ത നിങ്ങളിൽ കാണും ഗെയിൽ റെയിഞ്ച് ഒരു പ്രശ്നമാണ് അതിനാൽ ഞാൻ അത് എങ്ങനെ നിയന്ത്രിക്കും ആന്റിന പോളറൈസേഷന്റെ ചില അടിസ്ഥാനകാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും പോളറൈസേഷൻ കണക്കിലെടുക്കേണ്ട വിഷയമാണ് അടിസ്ഥാനപരമായി ആന്റിന പുറപ്പെടുവിക്കുന്നത് ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് ഇത് വൈദ്യുതകാന്തികമെന്ന് പറയുമ്പോൾ അതിന് ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇതാണ് E ഇതാണ് M ഇതാണ് പ്രചാരണ പാത ഇത് പ്രചാരണത്തിന്റെ അഭാവമാണ് അല്പം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതാണ് മാഗ്നെറ്റിക് ഫീൽഡ് വൈദ്യുത മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത് കാന്തികക്ഷേത്രമാണ് നിങ്ങൾ ഈ ദിശയിൽ തന്നെ അത് കാണിക്കണം അതിനാൽ നമുക്ക് ഇത് ഇതുപോലെ കാണിക്കാം എന്നിട്ട് ഇതുപോലെയാകുകയും ഇവിടെ നിന്ന് ഈ കട്ടിംഗ് പോലെ പോകുകയും ചെയ്യും അതിനാൽ ഒരു തരംഗം ഇതുപോലെ പോകുന്നത് E തരംഗമാണ് ഇത് ഒരു മാഗ്നെറ്റിക് തരംഗമാണ് അതിനാൽ EM തരംഗം പ്രധാനമായും പേർപേണ്ടികുലർ ഇലക്ട്രമാഗ്നറ്റിക് തരംഗങ്ങൾ ഉൾപ്പെടുന്നു 3 പോളറൈസേഷൻ ഉണ്ട് അവയിലൊന്നിനെ സർക്കുലാർ എന്നും മറ്റൊന്നിനെ എലിപ്റ്റിക്കൽ എന്നും മറ്റൊന്നിനെ ലീനിയർ എന്നും വിളിക്കുന്നു ലീനിയർ എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആകാം ഇപ്പോൾ ഈ ചിത്രം നോക്കൂ അല്ലെങ്കിൽ ഈ ചിത്രം നോക്കൂ ഞാൻ ഇവിടെ ഒരു ആരോ ഇട്ടു ഒരു ആരോ ഇവിടെ ഇട്ടു മറ്റൊന്ന് ഇവിടെ ഇട്ടു അതിനാൽ ഞാൻ സ്ഥിരത പുലർത്തുന്നത് നിങ്ങൾക്ക് കാണാം ഇത് സർക്കുലാർ ഇത് എലിപ്റ്റിക്കൽ ഇത് വെർട്ടിക്കൽ ഇത് ഞാൻ കാണിച്ച 4 ഹൊറിസോൺണ്ടൽ വാസ്തവത്തിൽ അവിടെ 3 മാത്രം ഇത് 2 ആണ് ഇത് 3 അവിടെ 3 മാത്രം ഇപ്പോൾ ഇത് ഹൊറിസോൺടെൽ പോളറൈസേഷനാണ് അതിനാൽ നമുക്ക് ഈ ഭാഗവുമായി മുന്നോട്ട് പോകാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നിരന്തരമായി കറങ്ങുന്നു അടിസ്ഥാനപരമായി വൃത്താകൃതിയിലുള്ള ധ്രുവീകരണത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഘട്ടം ഘട്ടമായി നിരന്തരമായ വേഗതയിൽ മാറുകയും ഇലക്ട്രിക് ഫീൽഡ് ഒരു വൃത്തത്തിലൂടെ നീങ്ങുകയും ചെയ്യുന്നു ഡോട്ട് ഇട്ട ഭാഗത്ത് മാഗ്നെറ്റിക് ഫീൽഡ് കാണിക്കുന്നു ഞാൻ ഇപ്പോൾ സ്ഥിരത പുലർത്തുന്നു ഇത് E ആയി മാറുന്നു ഹാർഡ് ലൈനിലുള്ള എല്ലാം E ആണ് അതിനാൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി E M എന്നിവയുണ്ട് അതിനാൽ നമുക്ക് എലിപ്റ്റിക് നോക്കാം എലിപ്റ്റിക് പോളറൈസേഷന്റെ വ്യാപ്തിയും ഫെയിസും മാറുകയും വൈദ്യുത മണ്ഡലത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കറങ്ങുകയും ചെയ്യുന്നു അതിനാൽ വൈദ്യുത മണ്ഡലത്തിന്റെ വ്യാപ്തിയും ഫെയിസും മാറുകയും വൈദ്യുത മണ്ഡലം ഒരു ദീർഘവൃത്താകൃതിയിൽ കറങ്ങുകയും ചെയ്യുന്നു ഒരു EM തരംഗത്തിന് ഒരു രേഖീയ രൂപമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭ്രമണത്തിനുപകരം ലീനിയർ ഇലക്ട്രിക് ഫീൽഡ് ഒരു നേർരേഖയിലൂടെ നീങ്ങുന്നു അതിനാൽ വൈദ്യുത മണ്ഡലത്തിന് ഈ ഡോട്ട് ഇട്ട വരികൾ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു ഈ ഭ്രമണ ഭാഗം ഫെയിസാണ് പ്രധാനമായും ഫേസ് ആപ്ലിറ്റ്യൂട് എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വൈദ്യുത മണ്ഡലം നിരന്തരമായ വ്യാപ്തിയുമായി കറങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു എലിപ്റ്റിക്കൽ പാറ്റേൺ ഉപയോഗിച്ച് കറങ്ങുന്ന ഇലക്ട്രിക് ഫീൽഡിനെക്കുറിച്ചും ഇവിടെ രേഖീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ ആന്റിന ധ്രുവീകരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് ഇത് വളരെ പ്രധാനമായത് കാരണം നിങ്ങൾ ഫെയ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോക്കലൈസേഷന്റെ ആവശ്യകതകൾക്കായി ഇത് ഒരു പ്രധാന പാരാമീറ്ററായി ഉപയോഗിക്കുന്നു ഇതിന് ഒരു ഫേസും ആംപ്ളിറ്റ്യൂഡും ഉണ്ട് അതിനാൽ ഇതൊരു വൈദ്യുത തരംഗമാണ് വൈദ്യുത മണ്ഡലം എങ്ങനെയാണ് കറങ്ങുന്നത് എന്നതിനെപ്പറ്റി യാണ് നമ്മൾ നോക്കുന്നത് അത് നിരന്തരമായ ആംപ്ലിറ്റ്യൂഡിൽ കറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക് പാറ്റേണിലാണോ അല്ലെങ്കിൽ അത് ഒരു രേഖീയ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് വളരെ ലളിതമാണ് വളരെ ദിശാസൂചനയുള്ള ആന്റിനകൾക്ക് ഒരു രേഖീയ പാതയുണ്ട് അത് പ്രധാനമായും ആന്റിനയുടെ പരിധി മെച്ചപ്പെടുത്തും അതിനാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ റേഡിയോ തരംഗത്തിന്റെ തുടക്കത്തിൽ പോളറൈസേഷൻ നിർണ്ണയിക്കുന്നത് ആന്റിനയാണ് അടിസ്ഥാനപരമായി ഈ തുടക്കത്തിൽ പോളറൈസേഷൻ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് വേവ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നത് ആന്റിനയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വേവ് വിക്ഷേപിക്കുന്നത് പ്രാരംഭ പോളറൈസേഷൻ നിർണ്ണയിക്കുന്നു ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചുകഴിഞ്ഞാൽ പരിസ്ഥിതിയും സംഭവങ്ങളും ഇതിനെ ബാധിക്കുന്നു പ്രതിഫലനം പോലുള്ള നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഏത് ഉപരിതലത്തിൽ നിന്നും പോളറൈസേഷൻ മാറ്റുന്നവയിൽ നിന്നും നിങ്ങൾക്ക് റിഫ്ളക്ഷൻ ഉണ്ടാകും ഓരോ തരംഗദൈർഘ്യവും ഉപരിതലത്തിൽ പതിക്കുകയും പ്രതിഫലിക്കുകയും ചെയ്യുമ്പോഴെല്ലാം പോളറൈസേഷനെ ബാധിക്കാം നിങ്ങൾ തുടക്കത്തിൽ പോളറൈസേഷൻ ചേർത്താൽ അത് RFID ടാഗിൽ എത്തുമ്പോൾ ആത്യന്തിക പോളറൈസേഷൻ എന്താണെന്ന് പറയാൻ പ്രയാസമാണ് ഇതാണ് യഥാർത്ഥ ബുദ്ധിമുട്ട് ഉദാഹരണത്തിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ ചില കാരണങ്ങളാൽ അവ ഡിപോളറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ടാഗ് നോക്കാത്തതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അതിനാൽ ടാഗ് റീഡ് ചെയ്യുകയോ റീഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ചില കാരണങ്ങളാൽ അവ ഡിപോളറൈസ് ചെയ്തതായി തോന്നുന്നു അതിനാൽ റിസീവറിന്റെയും ട്രാൻസ്മിറ്ററിന്റെയും സെറ്റ് ആപ്ലിക്കേഷനുകൾക്ക് ഒരേ പോളറൈസേഷൻ ഉണ്ടെങ്കിൽ പോളറൈസേഷൻ വൈദ്യുതി കൈമാറ്റം വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് 2 ആന്റിനയ്ക്കിടയിൽ പരമാവധി പവർ ട്രാൻസ്ഫർ ഉണ്ടാവും പക്ഷേ അവ ഇല്ലെങ്കിൽ ടാഗ് റീഡ് ചെയ്യുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടാകാം ഇവിടെ ഗെയിൻ എന്നത് ഐസോട്രോപിക് ആന്റി ന യുമായി താരതമ്യം ചെയ്തു കിട്ടുന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു ഐസോട്രോപിക് ആന്റിനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഐസോട്രോപിക് ആന്റിനയ്ക്ക് ഗെയിൻ ഒന്നാണ് ഒരു ഐസോട്രോപിക് പരിധിക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച ഒരു തരംഗത്തിന്റെ ഏതൊരു റേഞ്ച് മെച്ചപ്പെടുത്തലും അടിസ്ഥാനപരമായി നമ്മെൾ അതിനെ റേഞ്ച് എന്ന് വിളിക്കാം ഇപ്പോൾ യുഎച്ച്എഫ് ടാഗിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം യുഎച്ച്എഫ് ടാഗുകളിൽ RFID ടാഗുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ടെമോകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും പോകുന്നതിനുമുമ്പ് സിസ്റ്റം മനസിലാക്കാൻ കുറച്ച് സമയം ചെലവഴിക്കാം അതിനാൽ നിങ്ങൾ യുഎച്ച്എഫിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും 860 മെഗാഹെർട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നേരത്തെ ഞാൻ 960 മെഗാഹെർട്സിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു കൂടാതെ RFID അപ്ലിക്കേഷനുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ആവൃത്തി എന്താണെന്ന് മനസിലാക്കാൻ നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രത്യേക വിശദാംശങ്ങൾ നോക്കേണ്ടതുണ്ട് TRAI യെക്കുറിച്ചുള്ള എന്റെ അറിവ് അനുസരിച്ച് 865 മെഗാഹെർട്സ് ഇതിനകം നിർവചിച്ചിരിക്കുന്നു 868 മെഗാഹെർട്സ് മുതൽ 868 മെഗാഹെർട്സ് വരെയാണ് ഇന്ത്യയിലെ RFID റേഞ്ച് ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട സമയത്ത് അവ്യക്തത ഉണ്ടാകാതെ ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ RFID സിസ്റ്റങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് EPC ജനറേഷൻ 2 പ്രോട്ടോക്കോളുകൾ എന്ന പ്രോട്ടോക്കോളിനെക്കുറിച്ച് സംസാരിക്കേണ്ടിവരും അതിനാൽ മിക്ക ടാഗുകളും റീഡറുകളും ഇപിസി ജനറേഷൻ 2 പ്രോട്ടോക്കോൾ പിന്തുടരേണ്ടതുണ്ട് ഇപിസി എന്നാൽ ഇലക്ട്രോണിക് പ്രോടക്ട് കോഡ് ജെനറേഷനെ സൂചിപ്പിക്കുന്നു ഇപിസി 2 നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപിസി ജെൻ 2 ന് അനുയോജ്യമായ ടാഗുകളും റീഡറുകളും വാങ്ങുക നിങ്ങൾ ഇപിസി ജെൻ 2 ടാഗുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ടാഗുകൾ സ്റ്റേറ്റുകളിലേക്ക് വരുന്നു ഈ സ്റ്റേറ്റുകൾ എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാം ഈ സ്റ്റേറ്റുകളെ A B സെറ്റുകൾ എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി സ്റ്റേറ്റ് എയാണ് സ്ഥിരസ്ഥിതി അവസ്ഥ ടാഗ് ശക്തി പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ B സ്റ്റേറ്റ് സമയത്തിന് ശേഷം അത് Aയിൽ നിന്ന് Bയിലേക്ക് പോകുകയും പിന്നീട് Aയിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ടാഗ് ശക്തിപ്പെടുത്തുമ്പോൾ അത് സ്റ്റേറ്റ് Aയിലേക്ക് വരുന്നു തുടർന്ന് അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു തുടർന്ന് സ്റ്റേറ്റ് Bയിലേക്ക് പോകുന്നു എന്നിട്ട് തിരികെ വരുന്നു അതിനാൽ ഇതിനെ ടാർഗെറ്റ് A എന്നും ടാർഗെറ്റ് B എന്നും വിളിക്കുന്നു മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥത്തിൽ എങ്ങനെ ആരംഭിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഒരു ആർഎഫ് ഫ്രീക്വൻസി നൽകാൻ റീഡർ യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത എനർജി ഉപയോഗിക്കുന്നു ടാഗ് ഇതുപോലെ ചെറുതാണ് ടാഗിന് ഒരു ടാഗ് ആന്റിനയും ഉണ്ട് ഇതൊരു ടാഗ് ചിപ്പ് ആണ് ഇതാണ് ടാഗ് ആന്റിന ബാറ്ററിയൊന്നുമില്ല ഞങ്ങൾ സംസാരിക്കുന്നത് ബാറ്ററി ലെസ്സ് RFID സിസ്റ്റങ്ങളെക്കുറിച്ചാണ് ബാറ്ററി അസിസ്റ്റ്ഡ് തികച്ചും സമാനമാണ് റേഞ്ച് മെച്ചപ്പെടുത്തുന്നതിനായി ടാഗിന്റെ ഇലക്ട്രോണിക്സിലേക്ക് വൈദ്യുതി വിതരണം ഇത് നൽകുന്നു പൂർണ്ണമായും പാസീവ് ടാഗുകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം റീഡർ RF എനർജി റേഡിയേറ്റ് ചെയ്യുന്നു RF പവർ ഈ ടാഗിൽ എത്തുന്നു ഞാൻ ഇതുപോലുള്ള ഒരൊറ്റ വേവ് കാണിക്കും ഈ പവർ കാരിയർ തരംഗത്തെ പ്രാരംഭ കാരിയർ വേവ് എന്ന് വിളിക്കുന്നു വൈദ്യുതോർജ്ജത്തിലേക്ക് RF പവർ ഉൽപാദിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ ഇത് ഇതിനകം ചർച്ച ചെയ്തതിനാൽ ഞാൻ വിശദമായി പോകില്ല അതിനാൽ നിങ്ങൾ ഒരു ചെറിയ Vcc യും ഗ്രൌണ്ടും സൃഷ്ടിക്കും കൂടാതെ പ്രാരംഭ കാരിയർ തരംഗത്തിൽ നിന്ന് RF പവർ നൽകുന്നതിന് ഉപയോഗിക്കുന്നു ഒപ്പം എന്താണ്ചിപ്പ്ചെയ്യേണ്ടത് ചിപ്പിന് ഒരു ഇപിസി കോഡ് ഉണ്ട് ഈ ഇപിസി കോഡ് 96 ബിറ്റ്സ് വീതിയുള്ളതാണ് ഈ ടാഗിനെ ശക്തിപ്പെടുത്തുന്നതിന് ആദ്യ പ്രാരംഭ കാരിയർ വേവ് ഉപയോഗിക്കുന്നു ഈ ടാഗ് ചിപ്പ് പവർ ചെയ്തതിനുശേഷം അടിസ്ഥാനപരമായി ഈ ഡാറ്റ റീഡറിന് തിരികെ നൽകണം ഈ ആരോ കാണുക ഡാറ്റ റീഡറിന് തിരികെ നൽകുന്നതിന് ഈ ചിപ്പ് ഈ ഫോർവേഡ് ആരോ ഉപയോഗിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഫോർവേർഡ് ട്രാൻസ്മിറ്റ് വേവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചകമായ അതേ അടയാളത്തിൽ ഫോർവേർഡ് ട്രാൻസ്മിറ്റ് ചെയ്ത തരംഗത്തിൽ അതിന്റെ ഡാറ്റ തിരികെ നൽകുന്നു അതിനർത്ഥം ഇത് ഇപ്പോൾ ഡാറ്റ ബാക്ക് സ്കാറ്റർ ചെയ്യുന്നു എന്നാണ് അതിനാൽ ഇത് എന്താണ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമാണ് ഇത് ഇംപിഡൻസ് മാറ്റുകയാണ് പ്രക്ഷേപണം ചെയ്യുമ്പോൾ റീഡർ ആന്റിന മാറ്റുക ഇംപിഡൻസ് ഓരോ തവണയും മാറുന്നു ഒരു ഡിജിറ്റൽ ഡാറ്റയുണ്ട് അത് ഉയർന്ന ഇംപിഡൻസിലേക്ക് പോകുകയാണെങ്കിൽ അതിനെ ഒന്ന് എന്ന് പറയട്ടെ അത് ഡിജിറ്റൽ 0 ബിറ്റ് ആണെങ്കിൽ അത് കുറഞ്ഞ ഇംപെഡൻസിലേക്ക് പോകുന്നു റീഡർ ആന്റിനയുടെ ലഭിച്ച ഡാറ്റ ചെയിൻ മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഇത് RFID ചിപ്പ് നൽകുന്ന ബിറ്റ് സ്ട്രീമിലേക്ക് അത് ഡീകോഡ് ചെയ്യുന്നു ഇപ്പോൾ ഇത് അപര്യാപ്തമാണ് കാരണം ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഡാറ്റ നൽകാൻ റീഡർ എല്ലായ്പ്പോഴും ടാഗിനോട് പറയും ഉദാഹരണത്തിന് എൻകോഡിംഗ് ഒരു പ്രധാന കാര്യമാണ് അത് തിരികെ നൽകേണ്ട പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് അപ്പോൾ ടാർഗെറ്റുകൾ പിന്നീട് എൻകോഡുചെയ്യുന്നു തുടർന്ന് സ്ലോട്ടുകളുടെ എണ്ണം അതിനാൽ പ്രധാനമായും ഈ സജ്ജീകരണ പാരാമീറ്ററുകൾ ടാഗിലേക്കും നൽകണം അത് ചെയ്യേണ്ടത് കാരിയർ തരംഗത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് അത് ചിപ്പിനെ ശക്തിപ്പെടുത്തുന്നു തുടർന്ന് റീഡർ തുടർച്ചയായി ഈ വിവരങ്ങൾ കൈമാറുന്നു അത് ഡീകോഡ് ചെയ്യുകയും സെഷനുകൾ കോൺഫിഗർ ചെയ്യാൻ റീഡർ ആവശ്യപ്പെടുകയും അത് തിരികെ അയയ്ക്കേണ്ട ഡാറ്റയുടെ എൻകോഡിംഗും സ്ലോട്ടുകളുടെ എണ്ണവും ലക്ഷ്യം ഇടുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ 4 പാരാമീറ്ററുകൾ മനസിലാക്കാൻ നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് ഡെമോ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഇപിസി ജനറേഷൻ 2 മുതൽ 4 വരെ ലഭ്യമാണ് അതിനാൽ നമുക്ക് ഈ സെഷനുകൾ എടുക്കാം ഇതിന് 2 ഉദ്ദേശ്യങ്ങളുണ്ട് അത് ഒരു ടാഗ് എത്ര തവണ റീഡറിൽ നിന്നുള്ള ചോദ്യത്തോട് പ്രതികരിക്കുമെന്ന് നിർണ്ണയിക്കുന്നു രണ്ടാമത്തേത് ഒന്നിലധികം റീഡറെ സ്വതന്ത്ര ഇൻവെന്ററികൾ നടത്താൻ അനുവദിക്കുന്നു ഇതിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു A റീഡർ B എന്നിവ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒരൊറ്റ ടാഗ് ഉണ്ട് ഇവിടെ ഒരൊറ്റ ടാഗ് ഉണ്ട് റീഡർ A അന്വേഷിക്കുന്നു റീഡർ Bയും അതേ ടാഗ് അന്വേഷിക്കുന്നു RFID പാസീവ് ടാഗുകളിൽ ബാറ്ററി ഇല്ല എന്നതാണ് ഇവിടെയുള്ള വെല്ലുവിളി ഓർക്കുക കാരണം റീഡർ A ഇതിനകം പവർ ചെയ്തിട്ടുണ്ട് A പ്രക്ഷേപണം ആദ്യം ചെയ്തുവെന്നും ആ ടാഗ് പവർ ചെയ്തുവെന്നും നമുക്ക് പറയാം അതിനാൽ ടാഗിൽ ലഭ്യമായ വോൾട്ടേജ് പവർ ചെയ്യുന്നു ടാഗിന്റെ അവസ്ഥയിലെ പവറിന്റെ സ്ഥിരസ്ഥിതി ടാർഗെറ്റ് A ശരിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അത് അവിടെയുണ്ട് അത് B റീഡ് ചെയ്തു തീർത്തു ഇപിസി ജനറേഷൻ 2 കോഡ് ഇത് റീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അറിയാൻ ആഗ്രഹിക്കുന്നു ഇവ 2 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അവ ഒരേ ടാഗ് അന്വേഷിക്കുന്നു നിങ്ങൾക്ക് ഒരു മെക്കാനിസം കീ ഉണ്ടായിരിക്കണം അതിലൂടെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒന്നിലധികം റീഡർക്ക് റീഡ് ചെയ്യാൻ കഴിയും ഒപ്പം നിങ്ങൾ ക്രമീകരിച്ച ടാഗ് ലളിതമായി പറയുന്നതെങ്ങനെ ടാഗിലുള്ള എന്തെങ്കിലും നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നുവെന്ന് പറയുന്നു നിങ്ങൾ A സ്റ്റേറ്റിലായിരിക്കുമ്പോൾ റീഡർ എയ്ക്ക് അത് പറയാൻ കഴിയും കൂടാതെ നിങ്ങൾ B അവസ്ഥയിലായിരിക്കുമ്പോൾ ദയവായി എന്നോട് പ്രതികരിക്കൂ എന്ന് Bക്ക് പറയാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് അത് A സ്റ്റേറ്റിലായിരിക്കുമ്പോഴെല്ലാം അത് റീഡർ എ വായിക്കുന്നു A റീഡർ എയിലേക്ക് പോകുന്നു റീഡർ B സ്റ്റേറ്റ് B ആയിരിക്കുമ്പോൾ തന്നെ അത് എടുക്കുന്നു തൽക്ഷണം ഈ പ്രത്യേക ടാഗ് റീഡ് ചെയ്യില്ല അത് നല്ല കാര്യമാണ് അതിനാലാണ് നിങ്ങൾക്ക് സെഷനുകളും ടാർഗെറ്റുകളും ഉള്ളത് അതിനാൽ സെഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദകരിക്കാം ഞങ്ങൾ സെഷനുകളിലേക്ക് പോകുന്നതിനുമുമ്പ് പെർസിസ്റ്റണ്ട് സമയത്തെ കുറച്ച് പറയാൻ എന്നെ അനുവദിക്കുക സ്ഥിരമായ സമയം എന്നതിനർത്ഥം ടാർഗെറ്റ് Aയിലായിരിക്കുമ്പോൾ റീഡർ A വായിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾ A റീഡർ വായിക്കാൻ താൽപ്പര്യപ്പെടുന്നു തുടർന്ന് ടാഗ് ടാർഗെറ്റ് Bയിലേക്ക് പോകാനും ടാർഗെറ്റ് B റീഡർ B റീഡ് ചെയ്യാനും തീരുമാനിക്കുന്നു ഈ സ്റ്റേറ്റ് B വേഗത്തിൽ സ്റ്റേറ്റുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് എയിലാണെങ്കിൽ റീഡ് ചെയ്യാനു സ്റ്റേറ്റ് ബിയിലേക്ക് പോയി തുടരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ B ടാർഗെറ്റിൽ ആ ടാഗ് ചിലവഴിക്കുന്ന പെർസിസ്റ്റൻണ്ട് സമയം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വേണ്ടത് ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല പേർസിസ്റ്റൻ്റ് സമയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർമ്മാതാവിന്റെ നിയന്ത്രണത്തിലാണ് ഇത് നിങ്ങൾക്ക് നിയന്ത്രണമുള്ളത് തീർച്ചയായും സ്റ്റെഷനുകളാണ് ടാഗുകൾ ശക്തിപ്പെടുത്തിയതിനുശേഷം ആരാണ് റീഡറുടെ സെഷനുകൾ നിയന്ത്രിക്കുന്നത് സ്റ്റെഷനുകൾ റീഡർക്ക് നൽകാം അതിനാൽ സെഷനുകളെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് അതാണ് അതിനാൽ ഒരു ടാഗ് റീഡറിൽ നിന്നുള്ള ചോദ്യത്തിന് എത്ര തവണ പ്രതികരിക്കും എന്നത് ഒരു ഉദ്ദേശ്യത്തിനുള്ള ആവശ്യകതകളിൽ ഒന്നാണ് രണ്ടാമത്തെ ഉദ്ദേശ്യം ഒന്നിലധികം റീഡറെ സ്വതന്ത്ര ഇൻവെന്ററികൾ നടത്താൻ അനുവദിക്കുക എന്നതാണ് ഈ ടാർഗറ്റിന്റെ മറ്റ് ഉപയോഗം എന്താണ് നിങ്ങൾക്ക് ഒരൊറ്റ റീഡറുണ്ടെങ്കിൽപ്പോലും ഒന്നിലധികം റീഡറുണ്ടെങ്കിൽപ്പോലും സങ്കീർണ്ണമാക്കരുത് ഒരു റീഡർ ആണെങ്കിലും ടാഗുകൾ പലതവണ റീഡ് ചെയ്യേണ്ടി വരുന്നു അപ്പോഴും സ്റ്റെഷനുകൾ ഉപയോഗപ്രദമാണ് നിങ്ങൾക്ക് ഒരു ടാർഗെറ്റ് ഉണ്ട് നിങ്ങൾക്ക് B ടാർഗെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ ടാർഗെറ്റുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും ഇത് ഇതുപോലുള്ള ചിപ്പ് ആണ് ഈ ചിപ്പിനുള്ളിൽ എന്തു സംഭവിക്കുന്നു മാത്രമല്ല ഇത് ഒരു റീഡർ കേസ് റീഡ് ചെയ്താൽ ടാഗ് കോൺഫിഗർ ചെയ്യാൻ റീഡർ പറയുന്നു ടാർഗെറ്റ് Aയിൽ മാത്രമല്ല ടാർഗെറ്റ് Bയിലും നിങ്ങളുടെ ഇപിസി ജെൻ 2 ഐഡി തരൂ എന്ന് പറയുക അതിനാൽ നിങ്ങൾക്ക് ഡ്യുവൽ ടാർഗെറ്റിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് ഒറ്റ ടാർഗെറ്റിനെക്കുറിച്ചും ഈ സംയോജനത്തെക്കുറിച്ചും സംസാരിക്കാം അതിനാൽ പെർസിസ്റ്റൻ്റ് സമയത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഒരു പ്രത്യേക സ്റ്റെഷനിൽ തുടരാൻ ടാഗിന് നിർദ്ദേശം നൽകാനുള്ള വ്യവസ്ഥ നിങ്ങൾക്കുണ്ട് സെഷൻ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ 4 തരം സ്റ്റെഷനുകളുണ്ട് സ്റ്റെഷൻ 0 എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് നിലനിൽക്കുന്നതല്ല പവർ ഓഫ് സംഭവിക്കുമ്പോഴെല്ലാം ടാഗുകൾ റീസെറ്റ് സജ്ജമാക്കും ഇതിനർത്ഥം ഈ ഭാഗം യഥാർത്ഥത്തിൽ കട്ട് ഓഫ് ആണ് അത് തുല്യമാവുമ്പോൾ നിങ്ങൾ Bയിലേക്ക് പോലും പോകരുത് ഇത് തുല്യമാണ് ടാഗ് സ്വയം ശക്തിപ്പെടുത്തുകയും ടാഗുകൾ റീസെറ്റ് സജ്ജമാക്കുകയും ചെയ്യുമ്പോഴെല്ലാം സംസാരിക്കുക അതിനാൽ ഓരോ തവണയും പവർ അപ്പ് ചെയ്യുമ്പോൾ ഒരു ടാഗ് റീസെറ്റ് ഉണ്ട് തുടർന്ന് സ്റ്റെഷൻ 1 ഉണ്ട്സ്റ്റെഷൻ 1 500 മില്ലിസെക്കൻഡ് മുതൽ 5 സെക്കൻറ് വരെയും 2 3 സ്റ്റെഷനുകൾ കുറഞ്ഞത് 2 സെക്കൻഡിലുമാണ് അത് ഡുവൽ ടാർഗറ്റിനെ പറ്റിയാണ് സപ്റഷനോടുകൂടിയ ഒറ്റ ടാർഗറ്റും സാധ്യമാണ് ഡുവൽ സിൻകിൾ ടാർഗറ്റ് സ്റ്റെഷൻ ഒന്ന് രണ്ട് പിന്നെ സപ്റേഷനോടു കൂടിയത് എന്നൊക്കെ പറയാം അതിനാൽ ഇതെല്ലാം സാധ്യമാണ് ഈ സ്റ്റെഷനുകളെയും ടാർഗെറ്റുകളെയും കുറിച്ച് വായിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ IoT ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ടാഗുകളുടെ എണ്ണത്തെ ആശ്രയിച്ച് ടാർഗറ്റ് നിങ്ങൾ ക്രമീകരിക്കണം അതിനാൽ നിങ്ങൾ ഡബിൾ ടാർഗെറ്റിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടാഗ് തുടർച്ചയായി റീസ് ചെയ്യും A അല്ലെങ്കിൽ Bയിലാണോ എന്നത് സ്റ്റെഷന് സ്വാധീനമില്ല അതിനാൽ നിങ്ങൾ ഡബിൾ ടാർഗെറ്റ് സ്റ്റെഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്റ്റെഷന് അർത്ഥമില്ല സിംഗിൾ ടാർഗെറ്റ് സിംഗിൾ സ്റ്റെഷൻ 1 നിങ്ങൾ ടാഗ് റീഡ് ചെയ്യുകയും തുടർന്ന് Aയിലേക്ക് നീങ്ങുകയും ചെയ്യും അത് Bയിലേക്ക് നീങ്ങുകയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് Aയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഇത് മാത്രം റീഡ് ചെയ്യും ഇവിടെ അത് ബിയിലേക്ക് പോയി പിന്നീട് തിരികെ വന്ന് ഈ ടാഗ് വീണ്ടും റീഡ് ചെയ്യും ഞാൻ നിങ്ങളോട് 500 മില്ലിസെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സ്റ്റെഷൻ 1 ൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് ഒരു മാർഗമാണ് അതിനാൽ സ്റ്റെഷൻ 2 അല്ലെങ്കിൽ 3 ഉപയോഗിച്ച് റീഡർ സെർച്ച് മോഡ് ഒരൊറ്റ ടാർഗെറ്റിലേക്ക് സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ ടാഗ് ഒരിക്കൽ റീഡ് ചെയ്യുകയും പിന്നീട് B സ്റ്റേറ്റിലേക്ക് മാറുകയും തുടർന്ന് റീഡിലുള്ള മുഴുവൻ സമയവും നിശബ്ദത പാലിക്കുകയും ചെയ്യുക ഞാൻ റീഡ് ചെയ്ത ടാഗ് ഫയൽ ചെയ്തുകഴിഞ്ഞാൽ റീഡ് ഫീൽഡ് അതിന് പരമാവധി നിർവചിക്കാതെ തന്നെ 2 സെക്കൻഡ് സമയത്തേക്ക് സ്ഥിരത നിലനിർത്തും ഇപ്പോൾ ഒറ്റ ടാർഗെറ്റ് സപ്പ്രഷൻ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് സ്റ്റേഷൻ 2 3 എന്നിവയുടെ ഗുണം നൽകുന്നു അതിൽ റീഡ് ഫീൽഡിൽ ആയിരിക്കുമ്പോൾ അത് നിശബ്ദമായിരിക്കും ശാന്തമായേക്കാവുന്ന മറ്റ് ടാഗുകൾ ഇൻവെന്ററി അനുവദിച്ചുകഴിഞ്ഞാൽ ഇതിനുള്ള ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ എവിടെ കാണും നിങ്ങൾക്ക് കൂടുതൽ ടാഗുകൾ ഉണ്ടെങ്കിൽ ഒരേ ടാഗ് ആവർത്തിച്ച് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് റീഡ് ചെയ്താൽ പ്രതികരിക്കില്ല അതിനാൽ മറ്റ് ടാഗുകൾ തിരികെ വരാൻ അനുവദിക്കുന്നു നിങ്ങൾ സപ്പ്രഷനൊപ്പം ഒരൊറ്റ ടാർഗെറ്റ് ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെട്ടേക്കാം സ്റ്റെഷൻ 2 3 എന്നിവയുടെ പ്രയോജനം എന്തെന്നാൽ ഒരു തവണ ഇൻവെന്ററി കഴിഞ്ഞാൽ അത് റീഡ് ഫീൽഡിൽ തുടരും അതിനാൽ മറ്റ് ടാഗുകൾക്ക് ഇത് റീഡ് ചെയ്യാൻ കഴിയും അത് സ്റ്റെഷൻ 1 ന്റെ ഗുണം നൽകുന്നു അത് ഉടൻ തന്നെ പഴയപടിയാക്കും അതിനാൽ അത് റീഡർക്ക് ലഭ്യമാകും റീഡർ അന്വേഷണം സാധ്യമാണ് അത് മറ്റ് പ്രധാന കാര്യമാണ് ആർഎസ്എസ്ഐയെയും ഫെസിനേയും സംബന്ധിച്ചുള്ള ടെമോൾക്ക് ശേഷമുള്ള മറ്റ് 2 പ്രധാന പാരാമീറ്ററുകൾ എന്തെന്നു കാണാം ഞങ്ങൾ ഡെമോകളിലേക്കും RFID ടാഗിലേക്കും പോകുന്നതിനുമുമ്പ് RFID ചിപ്പിനുള്ളിൽ ലഭ്യമായ വ്യത്യസ്ത തരം മെമ്മറി ബാങ്കുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നിനെ റിസർവ്ഡ് മെമ്മറി എന്ന് വിളിക്കുന്നു കൂടാതെ ഏത് പാസ്വേഡും സംഭരിക്കാൻ ഈ റിസർവ്ഡ് മെമ്മറി ഉപയോഗിക്കുന്നു ചിപ്പിനെ പരിരക്ഷിക്കുന്ന പാസ്വേഡ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അത് റിസർവ് ചെയ്ത മെമ്മറിയിൽ ഉൾപ്പെടുത്താം അതിനാൽ മെമ്മറി ബാങ്കിൽ പാസ്വേഡും ആക്സസ്സ് പാസ്വേഡും സംഭരിക്കുന്നു അതിനാൽ പാസ്വേഡുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും റിസർവ്ഡ് മെമ്മറിയിൽ സംഭരിച്ചിരിക്കുന്നു കില്ലർ പാസ്വേഡ് എപ്പോഴും പ്രവർത്തനരഹിതമായിരിക്കും ഒരു കിൽ കമാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലുമുണ്ടെങ്കിൽ എപ്പോഴും പ്രവർത്തനരഹിതമായിരിക്കണം ടാഗിൽ നിന്ന് ഈ കമാൻഡ് കൈമാറാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം കൂടാതെ ടാഗുകൾ റീഡ് ചെയ്യാനുള്ള കഴിവ് ലോക്ക് ചെയ്യാനും അൺലോക്കുചെയ്യാനും ആക്സസ് പാസ്വേഡ് സജ്ജമാക്കിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ടാഗിന്റെ ആക്സസ് നിയന്ത്രണം പ്രധാനമായും റിസർവ് ചെയ്ത മെമ്മറിയുടെ ഭാഗമാണ് ഈ മെമ്മറി ബാങ്കിൽ എഴുതാൻ ഒരു പാസ് വേഡ് ആവശ്യമാണ് മിക്യ ഉപയോക്താക്കളും അവരുടെ അപ്ലിക്കേഷനുകളിൽ സെൻസിറ്റീവ് ഡാറ്റ അടങ്ങിയിട്ടില്ലെങ്കിൽ ഈ മെമ്മറി ഏരിയ ഉപയോഗിക്കില്ല രണ്ടാമത്തെ തരം മെമ്മറി ഇപിസി മെമ്മറിയാണ് ഇതാണ് മെമ്മറി ബാങ്ക് അത് ഇലക്ട്രോണിക് ഉൽപ്പന്നത്തെ ഒരു കോഡ് മെമ്മറിയിൽ സംഭരിക്കുന്നു ഒരു കോഡ് അടിസ്ഥാനപരമായി 96 ബിറ്റ്സ് വീതിയുള്ളതാണ് നിങ്ങൾക്ക് ഈ മെമ്മറിയിലേക്ക് എഴുതാം ഒരു ഭാഗം ഇപിസി മെമ്മറിയാണ് സാധാരണയായി മിക്ക ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നത് അതിനാൽ ഞങ്ങൾ കൂടുതലും ഇപിസി മെമ്മറിയെക്കുറിച്ച് ആശങ്കാകുലരാണ് കൂടാതെ യൂസർ മെമ്മറിയിൽ നിന്ന് ഇപിസി മെമ്മറിയിലേക്ക് വളരെയധികം ബിറ്റുകളുടെ ശേഷിയുള്ള ചില ടാഗുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇപിസി മെമ്മറിയിൽ കൂടുതൽ ബിറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും റിസർവ്ഡ് മെമ്മറിക്ക് ശേഷം ഇപിസി മെമ്മറി പിന്നെ ടിഐഡി മെമ്മറി എന്ന് വിളിക്കപ്പെടുന്നത് അതിനാൽ ഇത് 2ഉം ഇത് 3ഉം ആണ് നിർമ്മാതാവിന്റെ ഈ ചിപ്പിന്റെ തനതായ ഐഡി സംഭരിക്കുന്നതിന് ടിഐഡി മെമ്മറി ഉപയോഗിക്കുന്നു ഇത് നിർമ്മാതാവിൽ നിന്ന് വരുന്നു ഇത് MAC ഐഡി പോലെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഉദാഹരണത്തിന് ഒരു നെറ്റ്വർക്ക് ഇന്റർ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകളുടെ മീഡിയം ആക്സസ്സ് നിയന്ത്രണം MAC ഐഡി ആണ് നാലാമത്തേത് യൂസർ മെമ്മറിയാണ് ഇവിടെ ഉപയോക്താവിന് ഇപിസി വിഭാഗമല്ലാതെ മറ്റൊന്നിനായി മെമ്മറി ആവശ്യമുണ്ടെങ്കിൽ വിവരങ്ങൾ സംഭരിക്കാൻ കഴിയുന്ന വിപുലീകൃത യൂസർ മെമ്മറി ഉണ്ടെന്ന് ഉറപ്പാണ് യൂസർ മെമ്മറിയുടെ കാര്യം വരുമ്പോൾ ഓരോ ടാഗിലും എത്ര ബിറ്റ് മെമ്മറി എഴുതാമെന്നതിന് ഒരു മാനദണ്ഡവുമില്ല അതിനാൽ നിങ്ങൾക്ക് 512 ബിറ്റുകളുടെ വിപുലീകൃത മെമ്മറി ഉണ്ടായിരിക്കാം എന്നാൽ ചിലതിൽ 4K മുതൽ 8K വരെ മെമ്മറി വരെ ഉണ്ട് ഇപിസി ജെൻ 2 ന്റെ രണ്ടാമത്തെ റൈറ്റബിൾ മെമ്മറി ബാങ്കാണിത് ഈ യൂസർ മെമ്മറി അതിശയകരമായ ആപ്ലിക്കേഷനുകൾ സൃഷ്ടിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു ലളിതമായ കേസ് തരാം എന്തുകൊണ്ടാണ് ഈ ആന്റിന ബോധപൂർവ്വം സിമട്റിക്കൽ എനിക്ക് ഇത് ശരിയാക്കണം റിസർവ് ചെയ്ത മെമ്മറി നമുക്ക് നോക്കാം ഈ ഭാഗം ഇപിസി മെമ്മറിയാണ് ടാഗ് ഐഡി മെമ്മറിയും ഈ ഭാഗം യൂസർ മെമ്മറിയുമായ ടിഐഡി എന്ന് പറയാം ഇപ്പോൾ ഈ സിംഗിൾ RFID ചിപ്പ് നിങ്ങൾക്ക് I 2 C വാഗ്ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ ചില ചിപ്പുകൾ SPI ആശയവിനിമയം നൽകുന്നു നിങ്ങൾക്ക് ഈ RFID ചിപ്പിലേക്ക് സെൻസറുകൾ ബന്ധിപ്പിച്ച് UML സംഭരിക്കാൻ കഴിയും എന്നത് രസകരമാണ് ഓരോ തവണയും റീഡർ A RFID ചിപ്പിനെ ശക്തിപ്പെടുത്തുന്നു RFID റീഡറുകൾ പവർ ട്രാൻസ്മിറ്ററുകൾ പവർ RFID ചിപ്പ് I 2 C സെൻസറുകൾ റീഡ് ചെയ്യുന്ന അതേ പവർ യഥാർത്ഥത്തിൽ RFID ലും പ്രയോഗിക്കുന്നു സെൻസെറുകൾ യൂസർ മെമ്മറിയിൽ ഇടുന്ന ഡാറ്റ റീഡ് ചെയ്യുന്നു കൂടാതെ RFID ചിപ്പിന് ഇപ്പോൾ ഈ വിവരങ്ങൾ റീഡർക്ക് തിരികെ നൽകാനാകും കഴിയുന്നു പൂർണ്ണമായി ബാറ്ററി ലെസ്സാണ് സെൻസറുകൾ സെൻസർ ഡാറ്റയ്ക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ RFID വഴി പോകാൻ കഴിയും ഇത് അർത്ഥമാക്കുന്നത് RFID റീഡറിന്റെ സാന്നിധ്യത്തിലാണ് അതിനാൽ ഇത് വളരെ നല്ല ആപ്ലിക്കേഷനാണ് ഇത് പല കമ്പനികളും യഥാർത്ഥത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ ഡെമോകളിലേക്ക് പോകുന്നതിനുമുമ്പ് സ്ലോട്ടുകളുടെ എണ്ണത്തെക്കുറിച്ച് അവസാനമായി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സ്ലോട്ടുകളുടെ എണ്ണം അടിസ്ഥാനപരമായി ഇത് ടാഗുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ് ലഭ്യമായ ടാഗുകളുടെ സംഖ്യ നിങ്ങൾക്ക് ധാരാളം ടാഗ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനാൽ ആ ടാഗുകൾക്ക് പ്രതികരിക്കാൻ കഴിയും ടാഗുകൾക്ക് ഒരു സ്ലോട്ട് ഉണ്ട് അതിൽ യൂസർ മെമ്മറിയിൽ നിന്നും റീഡറിലേക്ക് വരുന്നെങ്കിൽ അവരുടെ ഇപിസി കോഡോ സെൻസർ ഡാറ്റയോ ആശയവിനിമയം നടത്താൻ കഴിയും അതിനാൽ ഇത് ടാഗ് പോപ്പുലേഷനുമായി പൂർണ്ണമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഒരാൾക്ക് ഒരു സമ്പൂർണ്ണ ഇൻവെന്ററി സൈക്കിളിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും മാത്രമല്ല ആ ഇൻവെന്ററി സൈക്കിളിലെ സ്ലോട്ടുകളുടെ എണ്ണം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും മറ്റും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും അതിനാൽ നമുക്ക് ചില ഡമോൺസ്ട്റേഷൻപോകാം അതിനുശേഷം ഞങ്ങൾ തിരികെ വരും തേജസ്വിനി ചില കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നു എന്നാൽ ഞാൻ ഇത് കാണുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ടാഗുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇവ വഴി നിങ്ങൾക്ക് വേയ്റ്റിങ്ങ്ലിസ്റ്ററും അവ കടലാസ് പോലെയാണ് ഈ ഭാഗം ആന്റിനയാണ് നിങ്ങൾക്ക് ഒരു കറുത്ത പുള്ളി ഇവിടെയും അവിടെയും കാണാം അവ 3 അടിസ്ഥാനപരമായി RFID ചിപ്പ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ 3 വ്യത്യസ്ത തരം ആന്റിന ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് പോളറൈസേഷന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും റീഡറും ടാഗ് ആന്റിനയും തമ്മിലുള്ള ഫലപ്രദമായ പോളറൈസേഷനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പരാമർശിച്ചിരുന്നു അതിനാൽ മികച്ച റീഡർ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ടാഗ് ഉപയോഗിക്കാം ഇതിനെ ഫ്രോഗ് എന്ന് വിളിക്കുന്നു ഇതിന് ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിന് ഒരു പ്രത്യേക പരിധി ഉണ്ട് ഇതിനെ ഡോഗ് ബോൺ ടാഗ് എന്നും ഇതിനെ ഒരു ഷോർട്ട് ഡൈപോൾ ടാഗ് എന്നും വിളിക്കുന്നു അതിനാൽ ഇതുപോലുള്ള വ്യത്യസ്ത ടാഗുകൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഏവിയേഷൻ ടാഗുകൾ വാങ്ങാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ഓട്ടോമോട്ടീവ് ടാഗുകൾ വാങ്ങാൻ കഴിയും ഉദാഹരണത്തിന് മെറ്റാലിക് ടാഗുകൾ അതിനാൽ ഇവയെല്ലാം സാധ്യമാണ് തന്നിരിക്കുന്ന അപ്ലിക്കേഷനായി നിങ്ങൾ ശരിയായ തരം ടാഗ് തിരഞ്ഞെടുക്കേണ്ടതായി വന്നേക്കാം ഇപ്പോൾ ആർഎഫ്ഐഡി ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നറിയാൻ നമുക്ക് മുന്നോട്ട് പോകാം ഇത് നിങ്ങൾക്ക് കാണാനാകുന്ന ഇംപ് പിഞ്ചിൽ നിന്നാണ് ഇതിനെ ഇംപ് പിഞ്ച് സ്പീഡ്വേ റീഡർ എന്ന് വിളിക്കുന്നത് ഇതിന് ഒന്നിലധികം പോർട്ടുകൾ ഉണ്ട് ഇവിടെ പവർ ഉണ്ട് തുടർന്ന് ഇത് കണക്റ്റുചെയ്തു ഈ ഭാഗo ഒരു കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയും ഇത് ആന്റിനയാണെന്നും ഈ ആന്റിനക്ക് ഒരു നിശ്ചിത ഗെയിനുണ്ടെന്നും ഇതിന് 6 dBi ഗെയിൻ ഉണ്ടെന്നും അതിനാൽ ഇത് ഒരു 6 dBi ആന്റിന ഗെയിനാണ് തേജസ്വിനി എന്തിനാണ് ഈ ടാഗ് എടുത്ത് ഈ ആന്റിനയ്ക്ക് മുന്നിൽ കാണിക്കുന്നത് കൂടാതെ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കുറച്ച് പാരാമീറ്ററുകൾ അവൾ കാണിക്കും നമുക്ക് തുടങ്ങാം തുടക്കത്തിൽ അവർ ഈ ടാഗ് കാണിക്കും കൂടാതെ ഈ ടാഗ് തുടർച്ചയായി റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ പാരാമീറ്റർ RSSI ആണ് ഇത് വഴിയെ നമ്മൾ മനസ്സിലാക്കും RFID സാങ്കേതികവിദ്യയെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ മൂന്നാമത്തെ പാരാമീറ്റർ ഫേസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും ചാനലാണ് മറ്റൊരു പാരാമീറ്റർ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് 4 ചാനലുകൾ വരെ ക്രമീകരിക്കാൻ കഴിയും ഇത് 865 7 മെഗാഹെർട്സ് വരെ ക്രമീകരിക്കുന്നതാണ് ടാഗ് റീഡ് ചെയ്ത സമയമാണിത് അതിനാൽ നിങ്ങൾക്ക് RFID ടാഗുകളും ടാഗിനെക്കുറിച്ചുള്ള വിവരങ്ങളും റീഡ് ചെയ്യാനുള്ള ലളിതമായ മാർഗമാണിത് അതിനാൽ ഇപ്പോൾ സ്റ്റെഷനുകളുടെ ടെ മോ നോക്കാം ഞങ്ങൾ സ്റ്റെഷൻ 0 യിൽ നിന്ന് ആരംഭിക്കും ഒരു ടാഗ് റീഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റെഷൻ 1 ചെയ്യും എന്ന് കാണാം നിശ്ചിത സമയ കാലതാമസമുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റെഷൻ 2ഉം 3 ഉം താമസമായിരിക്കും 2 സെക്കൻഡ് തുടർന്ന് ഇരട്ട ടാർഗെറ്റുകൾ ഉള്ള സ്റ്റെഷനുകളും ചെയ്യും അതിനർത്ഥം എല്ലാ സ്റ്റെഷനുകളും അവഗണിക്കപ്പെടുകയും തുടർച്ചയായി ടാഗുകൾ റീഡ് ചെയ്യുകയും ചെയ്യും അതിനാൽ സ്റ്റെഷൻ 0 ൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് ധാരാളം ടാഗ് റീഡുകൾ ഉണ്ടായിരിക്കണം നിരവധി ടാഗ് റീഡുകൾ നടക്കുന്നത് ഞങ്ങൾ കാണും ആന്റിനയുടെ മുൻപിൽ ടാഗ് ഇടുന്ന നിമിഷം താർ ച്ചയായി റീഡ് ചെയ്യുന്നത് കാണാം ഇത് സ്റ്റെഷൻ 0 നമുക്ക് സ്റ്റേഷൻ 1 ലേക്ക് പോകാം അതിനാൽ ഇത് സ്റ്റേഷൻ 0 ആണ് ഇപ്പോൾ സ്റ്റേഷൻ 1 പ്രാപ്തമാക്കുന്നു എന്താണ് സംഭവിക്കേണ്ടത് ഒരു റീഡിൽ നിന്ന് മറ്റൊന്ന് റീഡ് ചെയ്യാൻ താമസം ഉണ്ടായിരിക്കണം ഇത് സ്റ്റേഷൻ 1 ലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരു താമസമുണ്ട് അതിനാൽ ഇത് സ്റ്റേഷൻ 1 ആണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ മന്ദഗതിയിലുള്ള ഒരു രീതിയിലേക്ക് പോകാം അത് സെഷൻ 2 3 എന്നിവയാണ് ഇത് ശരിയാണെന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് 2 സെക്കൻഡ് സമയം നൽകുന്നു ഒരു ടാഗ് റീഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു കുറച്ച് താമസമുണ്ട് അതിനുശേഷം മറ്റൊരു ടാഗ് റീഡ് ചെയ്യുന്നു ടാർഗെറ്റുകളെക്കുറിച്ച് നിങ്ങളെ കാണിക്കുന്ന അവസാന ഡെമോയാണിത് നിങ്ങൾക്ക് ഇവിടെ തുടർച്ചയായി റീഡ് ചെയ്യാൻ കഴിയും ഉടൻ തന്നെ അതിന്റെ ടാഗുകൾ വളരെ വേഗത്തിൽ നിരവധി ടാഗുകളുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ സ്റ്റേഷനുകളിലും റീഡ് ചെയ്യുകയും അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് സ്റ്റെഷന്റെ ഡെമോയാണ് ഇപ്പോൾ നമുക്ക് ഈ ടാഗിൽ ഇരിക്കുന്ന ഇപിസി കോഡ് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഇതിൽ ഏതെങ്കിലും ഇപിസി കോഡ് കാണും അവിടെ ഇപിസി മെമ്മറി ഉണ്ട് ഈ ഇപിസി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ആ ടാഗിൽ ഏതെങ്കിലും ഇപിസി കോഡ് എങ്ങനെ ക്രമീകരിക്കും അതിനാൽ ഇപിസി ടാഗിന്റെ പ്രോഗ്രാമിംഗ് കാണിച്ചുതരാം ആദ്യം നമുക്ക് നിലവിലുള്ള ഇപിസി കോഡ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഒരു ടാഗ് റീസ് ചെയ്യുകയും ടെ മോൺസ്ട്രേഷൻ ബന്ധിപ്പിക്കുന്നതിലും തേജസ്വിനി തയ്യാറാക്കുകയും ടാഗ് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആദ്യം ടാഗ് നിർത്തി റീഡ് ചെയ്യാം അതിനാൽ ടാഗ് ഐഡി 0 2 0 B ആണ് ഇതാണ് ഇപ്പോൾ മാറുന്നത് പുതിയ ടാഗ് എന്താണെന്ന് നമുക്ക് നോക്കാം പുതിയ ടാഗ് ഐഡി 0 3 0 C ആണ് അവൾ ഇപ്പോൾ ഇത് സിസ്റ്റത്തിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു ഇത് ഇവിടെ നിന്നുള്ള ആർഎഫ് ഊർജ്ജത്തെ ബന്ധിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ ടാഗിനെ ശക്തിപ്പെടുത്തുകയും ഈ ടാഗിലേക്ക് ഡാറ്റ എഴുതുകയും അതൊടെ ടേഗിനെ പ്രോഗ്രാം ചെയ്യുന്നത് പൂർണമായി അതിനാൽ നമുക്ക് പ്രോഗ്രാമിംഗ് മോഡിൽ നിന്ന് പുറത്തുവരാം എന്നിട്ട് ഞങ്ങൾ ടാഗ് വീണ്ടും റീഡ് ചെയ്യുകയും ആ ടാഗ് റീഡ് ചെയ്യാൻ കോഡ് എഴുതുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു വീണ്ടും RF ഊർജ്ജം ടാഗിൽ എത്തുന്നു ടാഗ് ചിപ്പ് പവർ ചെയ്യുകയും 96 ബിറ്റ് ആയ ഇപിസി കോഡ് ടാഗിൽ നിന്ന് ആന്റിനയിലേക്ക് ബാക്ക്സ്കാറ്റർ ചെയ്യുകയും ചെയ്യുന്നു അതാണ് ഞങ്ങൾ ഇവിടെ റീഡ് ചെയ്യുന്നത് പുതിയ കോഡിന് നിങ്ങൾക്ക് 0 3 0 C എന്ന് നിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ കാണും അതിനാൽ ഇത് ഇപിസി സമയത്തിലെ മാറ്റവുമായി ബന്ധപ്പെട്ട ഡെമോ പൂർത്തിയാക്കുന്നു ഇപ്പോൾ വളരെ രസകരമായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കാം നിങ്ങൾക്ക് ഒരു RFID ചിപ്പിനെക്കുറിച്ചും ധാരാളം ഇന്റർഫേസ് പിന്നുകളെക്കുറിച്ചും സംസാരിക്കാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് സെൻസറുകളെ ശരിയായി ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് സെൻസറുകൾ കണക്റ്റുചെയ്യാനാകും ഞാൻ ഈ RFID ചിപ്പ് ഉപയോഗിച്ചു വാസ്തവത്തിൽ ഇത് ലാബിൽ ചെയ്തു ഇത് ഇരുവശത്തും ഒരു RFID ആന്റിനയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ ആന്റിനയിൽ കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇത് ലഭിച്ചു ഈ ആന്റിനയും ചിപ്പും ഞാൻ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം സെൻസറുകളെ ബന്ധിപ്പിക്കുന്നതിന് ഈ വയറുകൾ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം ഈ വയറുകളിലൂടെ ഇവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എന്തും നിങ്ങൾ യൂസർ മെമ്മറിയിലേക്ക് എഴുതേണ്ടിവരുമെന്നതിന്റെ വ്യക്തമായ സൂചകമാണ് അതിനാൽ ടാഗിന്റെ യൂസർ മെമ്മറിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ റീഡ് ചെയ്യാനും എഴുതാനും കഴിയുമെന്നതാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് EPC gen 2 അനുയോജ്യമായ ടാഗിന്റെ യൂസർ മെമ്മറിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന ഒരു കോഡ് ഉണ്ടാക്കും യൂസർ മെമ്മറി എങ്ങനെ റീഡ് ചെയ്യും എന്നും എന്താണതിനുള്ളിൽ എന്നും നമുക്ക് നോക്കാം RFID ചിപ്പ് RFID റീഡർ ആന്റിനയിലൂടെ പവർ ചെയ്യുന്നു അത് പവർ കൈമാറുന്നു ചിപ്പുകളിൽ വോൾട്ടേജ് ലഭ്യമാണ് കൂടാതെ ചിപ്പ് വിവരങ്ങൾ റീഡർ ആന്റിനയിലേക്ക് തിരികെ ബാക്ക്സ്കാറ്റർ ചെയ്യും നമുക്ക് ഇത് നിർത്താൻ കഴിയുമോ നമുക്ക് യൂസർ മെമ്മറി കോഡ് നോക്കാം മെമ്മറി കോഡ് എല്ലാം 0 ആണ് ആ സിസ്റ്റത്തിലേക്ക് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള സെൻസർ മൂല്യം ഉൾപ്പെടുത്താമെന്ന് നമ്മൾ ഇപ്പോൾ കാണും ഇതിനായി ഞങ്ങൾ യൂസർ മെമ്മറിയിലേക്ക് എന്തെങ്കിലും എഴുതുന്ന കമാൻഡ് അഭ്യർത്ഥിക്കും അവൾ ചെയ്യുന്നത് അവൾ 0 1 2 3 4 5 6 7 യൂസർ മെമ്മറിയിലേക്ക് എഴുതുന്നു ഇത് I 2 C അല്ലെങ്കിൽ SPI ബസ്സിൽ ലഭ്യമായ ചില സെൻസർ ഡാറ്റയ്ക്ക് തുല്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അടിസ്ഥാനപരമായി ഈ വയറുകളിലൂടെ നമുക്ക് യൂസർ മെമ്മറിയിലേക്ക് എഴുതാൻ കഴിയും അതിനാൽ ഇപിസി റൈറ്റ് പൂർത്തിയായി യൂസർ മെമ്മറി ആക്സസ് ചെയ്യാനാകുമോ എന്ന് നോക്കാം അതിനാൽ ഇപ്പോൾ യൂസർ മെമ്മറി വായിക്കാൻ ഞങ്ങൾ ഒരു കമാൻഡ് അഭ്യർത്ഥിക്കുന്നു ഓരോ ടാഗ് റീഡ് ചെയ്യുന്നു യൂസർ മെമ്മറി യഥാർത്ഥത്തിൽ വിജയകരമായി എഴുതി എന്നു നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇതൊക്കെയാണ് യൂസർ മെമ്മറിയെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് ആർ എസ് എസ് ഐ കുറിച്ച് ആണ് ഫേസുമായി ബന്ധപ്പെട്ട് റീഡർ ട്രാൻസ്മിഷൻ പവർ എങ്ങനെ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡെമോ ഞങ്ങൾ കാണിക്കും അത് അവൾക്ക് ഇവിടെ സജ്ജമാക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വ്യത്യസ്ത റേഞ്ച് ഉണ്ടാക്കാനും കഴിയും ടാഗുകൾക്ക് വ്യത്യസ്ത റീഡിഗ് റേഞ്ച് ഉണ്ടായിരിക്കാം അതിനാൽ അവൾ ഇപ്പോൾ എ പ്ലസ് 10 ഡിബിഎം ട്രാൻസ്മിഷൻ പവർ ഉപയോഗിച്ച് ആരംഭിക്കും അതിനാൽ ഇതിനൊപ്പം ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യും അവൾ തിരികെ പോകുന്നു അത് ഇപ്പോൾ റീഡ് ചെയ്യുന്നത് തുടരുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തോട്ടു വരികയാണെങ്കിൽ അത് കിട്ടുകയില്ല എന്നാൽ ദൂരത്തേക്ക് നീങ്ങുമ്പോൾ അത് ശെരിയായി റീഡ് ചെയ്യാൻ ആരംഭിക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്ന ആർഎസ്എസ്ഐകൾ മൈനസ് 47 ആണ് പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ ആർഎസ്എസ്ഐ മൈനസ് 30 ആകുന്നു ചിലപ്പോൾ ഇത് മൈനസ് 35 ആണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ഇതിനർത്ഥം റീഡർ ആന്റിനയ്ക്കും ടാഗിനുമിടയിൽ ഒരു ചെറിയ സൂചകമുണ്ടെന്നാണ് ഇതിനർത്ഥം അതിലൂടെ ഒരാൾക്ക് ആർഎസ്എസ്ഐയെ റീഡർ ടാഗിനും മറ്റൊന്ന് ടാഗിനും റീഡർ ആന്റിനയ്ക്കും ഇടയിലുള്ള റേഞ്ചിനായി ഉപയോഗപ്പെടുത്താം ഇപ്പോൾ അവൾ ട്രാൻസ്മിഷൻ പവർ അല്പം ഉയർന്ന ട്രാൻസ്മിഷൻ പവർ പ്ലസ് 30 ഡിബിഎം ആയി മാറ്റുന്നു വ്യക്തമായും റേഞ്ച് ശരിയായി ലഭ്യമായതിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം RSSI മാറുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നു അവൾ മൈനസ് 47 മൈനസ് 48 മൈനസ് 52 എന്നിങ്ങനെ പോകുന്നു എന്നതിന്റെ ഒരു സൂചകം ഇതിനകം കാണാം പക്ഷേ അത് ഇപ്പോഴും മൈനസ് 60 മൈനസ് 68 മൈനസ് 64 റീഡ് ചെയ്യുന്നു 66 ഇത് സ്ഥിരമല്ല RSSI സ്ഥിരതയുള്ളതല്ല ഇത് മൈനസ് 60 റീഡ് ചെയ്യുന്നു പക്ഷേ ഇത് ടാഗ് റീഡ് ചെയ്യാൻ പ്രാപ്തമാണ് ഇപ്പോൾ മൈനസ് 61 മൈനസ് 62 ഉം മറ്റും ടാഗിന് അപ്പുറത്തുള്ള എല്ലാം നിരസിക്കുന്നു ടാഗിന്റെ സംവേദനക്ഷമത റിസീവർ സംവേദനക്ഷമതയ്ക്ക് മുകളിലേക്കു പോയതിനാൽ ഇത് ഇപ്പോൾ റീഡിങ്ങ് നിർത്തിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ആർ എസ് എസ് ഐ യും ഫേസും എന്താണെന്ന് നോക്കാം ഫെയിസ് ഭാഗം ഞാൻ നിങ്ങളൾക്ക് കാണിച്ചില്ല പക്ഷേ ഫെയിസ് മറ്റൊരു പ്രധാന പാരാമീറ്ററാണ് മിക്കതും റീഡർക്കും നിങ്ങൾക്ക് നൽകും കൂടാതെ ഫെയിസ് ആർഎസ്എസ്ഐ എന്നിവ ഉപയോഗിച്ച് ലോക്കലൈസേഷനുമായി ബന്ധപ്പെട്ട നിരവധി ആവേശകരമായ ആപ്ലിക്കേഷനുകൾ സാധ്യമാണ് ഫേയ്സ് ഉപയോഗിക്കുകയും രണ്ടും യഥാർത്ഥത്തിൽ ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ടാഗ് ഐഡി കാണിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം RSSI ഫെയ്സ് കാണിച്ചിരിക്കുന്നു ചാനലും മറ്റും കാണിക്കുന്നു അതിനാൽ ഈ 2 നെ നല്ല സൂചകങ്ങളായി ഉപയോഗിക്കും വാസ്തവത്തിൽ ടാഗ് മൂവ് ചെയ്യുന്നതിനു അനുസരിച്ച് ഫേസ് മാറികൊണ്ടിരിക്കുന്നു ഇത് റേഞ്ച് അളക്കാൻ ഉപയോഗിക്കാം ഇത് അവസാന ഭാഗമാണ് ഇത് ഒരു ബാപ്പ് RFID ആണ് ടാഗ് നിങ്ങൾക്ക് ചെറിയ കോയിൻ സെൽ ബാറ്ററികൾ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു നല്ല ബാറ്ററിയുണ്ട് ഞങ്ങൾ ഈ ഡ്യൂറസെൽ ബാറ്ററികളുമായി ബന്ധിപ്പിച്ചു ഇത് നിങ്ങൾക്ക് യഥാർത്ഥ ഫീൽഡ് നേരിട്ട് നൽകുന്നു അങ്ങനെ RFID ചിപ്പ് മെച്ചപ്പെടുത്തുന്നു RFID ആന്റിന ഇവിടെയുണ്ട് വളരെയധികം നന്ദി